കോഴ്സ് ഡിസാസ്റ്റർ റിക്കവറിയിലേക്ക് സ്വാഗതം എന്റെ പേര് രാം സതീഷ് പശുപുലേറ്റി ഞാൻ ഐഐടി റൂർക്കിയിലെ ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു ഇന്ന് ഞാൻ ഡിആർആറിന്റെ 2 പ്രധാന ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നു അത് ദുരന്തസാധ്യത കുറയ്ക്കുന്നു ഇവയിൽ CAM CBDRM എന്നിവ ഉൾപ്പെടുന്നു CAM എന്നത് കമ്മ്യൂണിറ്റി അസറ്റ് മാനേജ്മെന്റാണ് രണ്ടാമത്തേത് CBD കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റാണ് അതിനാൽ ഈ CAM CBDRM എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് സിസ്റ്റത്തിനുള്ളിലെ സങ്കീർണ്ണതകളും ഈ വ്യത്യസ്ത നെറ്റ്വർക്കുകളിലെ ശ്രേണികളും എന്താണെന്ന് വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നു സ്ഥാപന ശൃംഖലകളും ഒരു ദുരന്ത വീണ്ടെടുക്കലിന്റെ ഏകോപനത്തിനും ആസൂത്രണത്തിനുമുള്ള നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് കാരണം നമ്മൾ ദുരന്തനിവാരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ യുഎൻ സംവിധാനമെടുത്താലും ധാരാളം ഏജൻസികൾ ചിത്രത്തിലേക്ക് വരുന്നു ഐക്യരാഷ്ട്രസഭയിലും അങ്ങനെ കുറെ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ അവ യഥാർത്ഥത്തിൽ എങ്ങനെ തരംതിരിക്കപ്പെട്ടിരിക്കുന്നു അവ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അവ എങ്ങനെ പരസ്പരം ശ്രേണീകൃതമാണ് അവ എങ്ങനെ ഭരണസമിതികൾ പരസ്പരം പ്രവർത്തിക്കുന്നു അങ്ങനെ അത് എങ്ങനെ ചെയ്തു എന്ന് നോക്കാം എന്റെ ഗവേഷണത്തിന്റെ ഭാഗമായി ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന മാക്സ് ലോക്ക് സെന്റർ മൈൻഡ് ഗ്യാപ്പിനെക്കുറിച്ച് അവർ ഒരു ഡോക്യുമെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ദുരന്താനന്തര പുനർനിർമ്മാണവും മാനുഷിക ദുരിതാശ്വാസത്തിൽ നിന്നുള്ള പരിവർത്തനവും എന്നതായിരുന്നു ഡോക്യുമെന്റ് അതിനാൽ ആ മോണോഗ്രാഫിൽ മാക്സ് ലോക്ക് സെന്റർ ടോണി ലോയ്ഡ് ജോൺസും അദ്ദേഹത്തിന്റെ സംഘവും ഇത്തരത്തിലുള്ള നെറ്റ്വർക്ക് വികസിപ്പിച്ചെടുത്തു യുഎന്നിൽ എന്താണ് സംഭവിക്കുന്നത് വിവിധ വ്യത്യസ്ത ബോഡികൾ എന്തൊക്കെയാണ് അതിനാൽ യുഎൻ ദുരന്ത പ്രതികരണ സംവിധാനത്തിനുള്ളിലെ ഇത്തരത്തിലുള്ള സ്ഥാപനപരമായ സങ്കീർണ്ണത ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാൻ നോക്കാം അതിനാൽ ഒന്ന് നിങ്ങൾക്ക് യുഎൻ ജനറൽ അസംബ്ലിയുടെ ഉയർന്ന ബോഡിയുണ്ട് അത് ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനുള്ള ഐഎസ്ഡിആർ എന്ന അന്താരാഷ്ട്ര തന്ത്രമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനുള്ള ഇന്റർഏജൻസി ടാസ്ക് ഫോഴ്സും യുഎൻ ഐഎസ്ഡിആറും അതിനുള്ളിലാണ് ISDR നുള്ള ഇന്ററാജൻസി സെക്രട്ടേറിയൽ ഉള്ളത് അതിനാൽ ഇത് 2 ഐഎസ്ഡിആർ രൂപപ്പെടുത്തുന്നു തുടർന്ന് നിങ്ങൾക്ക് മാനുഷിക നയ വികസനത്തിന്റെയും മാനുഷിക അഭിഭാഷകത്വത്തിന്റെയും ഏകോപനം ഉണ്ട് അതിനുള്ളിൽ ഞങ്ങൾക്ക് യൂ എൻ ഇ സ് ഡി യുടെ യുഎൻ ഏജൻസികളുണ്ട് അത് സാമ്പത്തികവും സാമൂഹികവുമായ വികസനവും യുനെസയും സാമ്പത്തിക സാമൂഹിക കാര്യങ്ങൾ എന്നിവയുമുണ്ട് ഒപ്പം DESE SDC UNDAW എന്നിവയെ പ്രതിധ്വനിപ്പിക്കുന്നതിനുള്ള പിന്തുണയും ഏകോപനവും സ്ത്രീയുടെയും യുഎൻസിആർഡിയുടെയും പുരോഗതി റീജിയണൽ ഡെവലപ്മെന്റ് അതിനാൽ ഈ ഏജൻസികളുടെ എണ്ണം അതിന്റെ ഭാഗമാണ് തുടർന്ന് നിങ്ങൾക്ക് സെൻട്രൽ രജിസ്റ്ററും ഒസിഎച്ച്എയും ഉണ്ട്ഇത് ഒരു പ്രധാന വശമാണ് മാനുഷിക കാര്യങ്ങളുടെ ഏകോപന ഓഫീസ് അതിനാൽ ഇത് സെൻട്രൽ രജിസ്റ്റർ എമർജൻസി ടെലികമ്മ്യൂണിക്കേഷൻ എമർജൻസി റിലീഫ് കോ ഓർഡിനേറ്റർ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഭാഗം ഒരു സുപ്രധാന ഓഫീസാണ് അവിടെയാണ് ഇത് ഇന്റർഏജൻസി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായി ഉയർന്നുവരുന്നത് അത് നേരത്തെയുള്ള വീണ്ടെടുക്കൽ ക്ലസ്റ്ററും സിവിൽ മിലിട്ടറി ഏകോപനവുമാണ് കാരണം ഈ പ്രത്യേക ഐഎസി നേരത്തെയുള്ള വീണ്ടെടുക്കലിനെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കുന്നു സൈന്യം ചിത്രത്തിലേക്ക് വരുന്നു അതിനാൽ അവിടെയാണ് സിവിൽ സൈനിക ഏകോപനവും ഐഎസ്ഡിആറിൽ നിന്ന് അത് പോകുന്നത് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഐഡിഡി എന്നിവയെക്കുറിച്ചുള്ള ലോക കോൺഫറൻസായ ഡബ്ല്യുസിഡിആറിന്റെ പ്രോഗ്രാമിലേക്കാണ് ഇന്റേണൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവിഷന്റെ ഇന്റർ ഏജൻസിയാണത് അതിനാൽ ഇവയാണ് യുഎൻ ഏജൻസികൾ ഒന്ന് യുഎൻഡിപിയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാംക്രൈസിസ് പ്രിവൻഷൻ ആൻഡ് റിക്കവറി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രോഗ്രാമിനെക്കുറിച്ചും ഡ്രൈലാൻഡ്സ് വികസന കേന്ദ്രത്തെക്കുറിച്ചും സംസാരിക്കുന്ന പ്രോഗ്രാം ആവാസവ്യവസ്ഥ ചിത്രത്തിലേക്ക് വരുന്ന നിമിഷം അത് അഭയവുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു പാർപ്പിടവും സുസ്ഥിരമായ ജനവാസ കേന്ദ്രങ്ങളും ദുരന്തനിവാരസംഘടനയ്ക്കായുള്ള ണ പരിപാടിയും പിന്നീട് ലോകാരോഗ്യ WH നെക്കുറിച്ച് സംസാരിക്കുന്നു ഇത് പ്രതിസന്ധി ഘട്ടങ്ങളിലെ ആരോഗ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എൻഡമിക് പകർച്ചവ്യാധികൾ തടയുക പ്രതിസന്ധിയിലും അടിയന്തര സാഹചര്യത്തിലും ആരോഗ്യസ്ഥിതിയെ എങ്ങനെ സമീപിക്കണം തുടങ്ങിയ പ്രതിസന്ധി ഘട്ടങ്ങളിലെ ആരോഗ്യ പ്രവർത്തനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടനയാണിത് ഫാമിംഗ് കന്നുകാലി മത്സ്യബന്ധനവും വനവൽക്കരണവും ആയ എഫ്എഒ ആഗോള വിവരങ്ങളും മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനവും കൂടിയാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഉപജീവനത്തെക്കാൾ ഉപജീവനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കാരണം നിങ്ങൾക്കറിയാമോ ഞങ്ങൾ പോഷകാഹാരക്കുറവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് വികസ്വര രാജ്യങ്ങളിലെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് അതിനാൽ നിയമവും ലോക ഭക്ഷ്യ പദ്ധതിയും ഒരു പ്രധാന വശമാണ് പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഭക്ഷ്യസുരക്ഷ നൽകാം ദുരന്തനിവാരണത്തിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന UNEP അങ്ങനെയാണ് പ്രാഥമിക മുന്നറിയിപ്പിനെ കുറിച്ച് വിലയിരുത്തൽ വിവര ഡാറ്റാബേസ് പ്രാദേശിക തലത്തിൽ അത്യാഹിതങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നത് UNICEF ആരോഗ്യ വിദ്യാഭ്യാസ സമത്വവും ദുരന്തങ്ങളിൽ കുട്ടികളുടെ സംരക്ഷണവുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ദുരന്തങ്ങളാൽ ബാധിക്കപ്പെടുന്ന കുട്ടികളെ എങ്ങനെ പരിപാലിക്കണമെന്നുള്ളതിലും UNICEF ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അവർക്ക് എങ്ങനെ ആരോഗ്യ വിദ്യാഭ്യാസം നൽകാനും അതുപോലെ അവർക്ക് സംരക്ഷണം നൽകാനും യുനെസ്കോ ഒരു പ്രതിരോധ തന്ത്രവും ആഗോള മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനവും ആഘാതത്തെ പ്രതിരോധിക്കുന്നതും ഒരു കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന ഈ കമ്മ്യൂണിറ്റികൾക്കുള്ള സാംസ്കാരിക ചട്ടക്കൂടിനെക്കുറിച്ചും സംസാരിക്കുന്നു കൂടാതെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ദുരന്തങ്ങളിൽ നാശം വിതച്ച പൈതൃക സ്ഥലങ്ങൾ അഭയാർത്ഥികളുടെ രൂപത്തിലായാലും യുദ്ധത്തിലോ ഏതെങ്കിലും ദുരന്തത്തിലോ പലായനം ചെയ്ത ആളുകളുടെ രൂപത്തിലായാലും കുടിയിറക്കപ്പെട്ടവരുടെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സംഘടനയാണ് UNHC അപ്പോൾ ഏത് തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളാണ് ഇവിടെയാണ് UNHC പ്രവർത്തിക്കുന്നത് ഞാൻ ഇവിടെ ചർച്ച ചെയ്തതുപോലെ ഇത് ഒരു റിലീഫ് വെബ് അല്ലെങ്കിൽ ഹ്യുമാനിറ്റേറിയൻ ഇൻഫോ ഡോട്ട് ഓർഗ് അല്ലെങ്കിൽ ഗ്ലൈഡ് നമ്പർ അല്ലെങ്കിൽ വെർച്വൽ OSOCC നമ്പർ എന്നിങ്ങനെയുള്ള വിവര സംവിധാനം ആണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ത് വീണ്ടെടുക്കൽ പ്രോഗ്രാമുകൾ നടക്കുന്നു ഏതൊക്കെ എൻജിഒകൾ പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ ഇത് ഒരു വലിയ ഡാറ്റാബേസ് കൊണ്ടുവരുന്നു ഇവിടെയാണ് നമ്മൾ വീണ്ടും ദുരന്തനിവാരണ പരിശീലന പരിപാടിയായ UNDMTP യെ കുറിച്ച് സംസാരിക്കുന്നത് UNDP വശവുമായി ഇത് വീണ്ടും വളരെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം ഒരിക്കൽ ഞങ്ങൾക്ക് വിവര സംവിധാനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭരണ സമിതികളുണ്ട് നിങ്ങൾക്ക് യുഎൻ ഏജൻസികളുണ്ട് നിങ്ങൾക്ക് ISDR തന്ത്രമുണ്ട് അങ്ങനെയാണ് ഒരാൾ അതിന്റെ മാനേജ്മെന്റ് പ്രക്രിയയും വിവരങ്ങളും നോക്കുന്നത് ദുരന്തനിവാരണ പദ്ധതിയായ ISDR എന്ന അന്താരാഷ്ട്ര തന്ത്രമാണിത് ഇത് മാനുഷിക നയ വികസനത്തിന്റെയും ഹ്യുമാനിറ്റീസ് അഡ്വക്കസിയുടെയും കൂടുതൽ ഏകോപനമാണ് അതിനാൽ ദ്രുതഗതിയിലുള്ള വിലയിരുത്തലും അന്തർദ്ദേശീയ ഏകോപനവും ഞങ്ങൾ ഇവിടെ കാണുന്നു ഇവിടെയാണ് യുണൈറ്റഡ് നേഷൻസ് വിലയിരുത്തുന്നതും ഏകോപിപ്പിക്കുന്നതും അവർ സെർച്ച് ആൻഡ് റെസ്ക്യൂവും ഇന്റർനാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഉപദേശക ഗ്രൂപ്പായ INSARAG ഉം നോക്കുന്നു ഒരു ദുരന്തമുണ്ടായാൽ ഉടനടിയുള്ള തിരച്ചിൽ പ്രക്രിയയും അവർ അത് എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം ഈ മുഴുവൻ രക്ഷാപ്രവർത്തനവും ഉപദേശക സംഘവും പിന്തുടരേണ്ട സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നെ കാര്യങ്ങൾ നോക്കുന്നു ഇവിടെയാണ് UNDAC ദ്രുത വിലയിരുത്തലിലും അന്തർദേശീയ ഏകോപനത്തിലും പ്രവർത്തിക്കുന്നത് ഇത് IRIN 920 മായി കൂടുതൽ ബന്ധപ്പെടുത്തുന്നു ഇത് ഒരു വാർത്തയും പ്രക്ഷേപണ സേവനവുമാണ് ഇവിടെയാണ് ഇത് വീണ്ടും യുഎൻ പ്രാദേശിക ഏജൻസികളുമായി ആശയവിനിമയം നടത്തുന്നത് അത് UNICA ആണെങ്കിലും ആഫ്രിക്ക CEPAL ലാറ്റിൻ അമേരിക്ക UNECE യൂറോപ്പും യുനെസ്കാപ്പും ഏഷ്യ പസഫിക് UNSC പടിഞ്ഞാറൻ ആഫ്രിക്ക പശ്ചിമേഷ്യ യുഎൻ ഡിസാസ്റ്റർ റെസ്പോൺസ് സിസ്റ്റത്തിലെ ഈ സങ്കീർണ്ണത മുഴുവനും ഇങ്ങനെയാണ് നിരത്തിയത് വ്യത്യസ്ത ബോഡികൾക്ക് അവരുടേതായ വ്യക്തിഗത ജോലികൾ അതുപോലെ തന്നെ ചില ഓവർലാപ്പുകളും ഈ ഏജൻസികൾക്കുള്ളിൽ നിലവിലുണ്ട് ഇങ്ങനെ എല്ലാം നോക്കേണ്ടതുണ്ട് വാസ്തവത്തിൽ ഈ സംവിധാനം ദേശീയ ഗവൺമെന്റുകളുമായോ സംസ്ഥാന തല പാർട്ടികളുമായോ ബന്ധപ്പെടുമ്പോൾ കൂടുതൽ സങ്കീർണ്ണമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നു കാരണം അവ ഒരു പ്രത്യേക രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത സാഹചര്യത്തിൽ സമ്മർദം ചെലുത്തുന്നു എന്നാൽ മുൻഗണനകൾ വളരെ വ്യത്യസ്തമാണ് അതിനാൽ അവിടെയാണ് പോൾ ഒലിവറും ഐസൻ യാസെമിനും വീണ്ടെടുക്കൽ പ്രക്രിയയെക്കുറിച്ചുള്ള ധാരണകൾ സമാനമല്ലെന്ന് അവർ അഭിപ്രായപ്പെട്ടു വീണ്ടെടുക്കൽ നടത്തുന്നവരിലും സ്വീകർത്താക്കൾക്കിടയിലും ഒരാൾ ദാതാവാണ് ഒരാൾ എടുക്കുന്നയാളാണ് അതിനാൽ രണ്ട് ധാരണകളും വളരെ വ്യത്യസ്തമാണ് ഏജൻസികൾക്ക് കാര്യക്ഷമതയ്ക്കും വേഗതയ്ക്കുമുള്ള പ്രധാന ഉപകരണങ്ങൾ സഹായം നൽകുന്നത് സർക്കാരോ സന്നദ്ധ സംഘടനകളോ ആകുന്നു നമുക്ക് എത്ര വീടുകളിൽ താമസിക്കാം എത്ര ജീവനോപാധികൾ സൃഷ്ടിക്കാം എങ്ങനെ സൃഷ്ടിക്കാം എത്ര കാര്യക്ഷമമായി അവ സൃഷ്ടിക്കാം ഇവയാണ് ഈ മുൻഗണനകളെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിന്യസിച്ചിരിക്കുന്ന പ്രധാന പരിഗണനകളും മനോഭാവങ്ങളും ആചാരങ്ങളും അതേസമയം സ്വീകർത്താക്കൾ ദുരന്തവും അതിന്റെ അനന്തരഫലങ്ങളും അവരുടെ ജീവിതത്തിന്റെ ഒഴുക്കിലെ തടസ്സങ്ങളാണ് ഉദാഹരണത്തിന് സുനാമിയിൽ ബോട്ടുകൾ നഷ്ടപ്പെട്ട സ്വീകർത്താക്കൾ ഉടനടി ജീവിതവും ആവശ്യവും സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു അവർ അവരുടെ ഉപജീവനമാർഗത്തിലേക്ക് തിരിച്ചുവരുന്നു അതിനാൽ അവരുടെ ആചാരങ്ങളും സമ്പ്രദായങ്ങളും എങ്ങനെ നിലനിർത്താംവാസ്തവത്തിൽ അവരുടെ ജീവിതത്തിന്റെ കടന്നുകയറ്റവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പെരുമാറ്റരീതികളും നിലനിർത്താൻ ആഗ്രഹിക്കുന്നതും ബാഹ്യമായ ആശ്വാസത്തിന് തടസ്സമാണെങ്കിലും സ്ഥിരതയുടെ അളവുകോൽ ഉറപ്പാക്കുന്നത് വളരെ പ്രധാനമാണ് ഒരു ദുരന്തത്തിന്റെ ഉടനടി ആഘാതമാകാം എന്നതിനാൽ സ്വീകർത്താവ് നോക്കുന്നത് ഇവിടെയാണ് അവൻ ഉടനടി ഒരു അഭയം തേടിയേക്കാം അതാണ് അവരുടെ അടിയന്തിര ആവശ്യം എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അവൻ നിലനിർത്തേണ്ടതിനാൽ ധാരണ മാറുന്നു അവന്റെ ആചാരങ്ങളിലും ജീവിതരീതിയിലും സന്തുലിതാവസ്ഥ ഉണ്ടായിരിക്കണം അവിടെയാണ് ഒരാൾ നിങ്ങളെ നോക്കേണ്ടത് ഈ വിടവും ദാതാക്കളും സ്വീകർത്താക്കളും അഡ്മിനിസ്ട്രേറ്റർമാരും സ്വീകർത്താക്കളും തമ്മിലുള്ള വ്യത്യാസങ്ങളും പരിഹരിക്കുന്നതിന് ദുരിതാശ്വാസ സംസ്കാരം എന്താണ് നോക്കേണ്ടത് എന്ന് അറിയുക സ്വീകർത്താക്കളുടെ സംസ്കാരം ഉടനടി മാത്രമല്ല ദീർഘകാല വശങ്ങളിലും എന്താണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ ഈ 2 ടെർമിനോളജികളിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും ഒന്ന് CAM ആണ് അത് ഒരു കമ്മ്യൂണിറ്റി അസറ്റ് മാനേജ്മെന്റ് ആണ് ഞങ്ങൾ CAM നെയും പരാമർശിക്കുന്നു ഇത് നഗര ഗ്രാമീണ ജനതയുടെ കൂട്ടായ ഉപയോഗത്തിലുള്ള ഭൌതിക ആസ്തികളുടെ മാനേജ്മെന്റാണ് അതിനാൽ ഇത് മാനേജ്മെന്റിനെ കൊണ്ടുവരുന്നു കെട്ടിടങ്ങളുടെ രൂപത്തിലായാലും അടിസ്ഥാന സൌകര്യങ്ങളുടെ രൂപത്തിലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഉപജീവന സംഭരണത്തിന്റെ രൂപത്തിലായാലും ഇവയാണ് ഭൌതിക ആസ്തികൾ ഇവ നഗരവാസികളായാലും ഗ്രാമങ്ങളായാലും അവർക്ക് എത്രത്തോളം കൂട്ടായി ആക്സസ് ചെയ്യാൻ കഴിയും വികസ്വര രാജ്യങ്ങളിൽ താഴ്ന്ന വരുമാനമുള്ള സമൂഹങ്ങളുടെ മെച്ചപ്പെട്ട ശേഷി CAM യഥാർത്ഥത്തിൽ വിഭാവനം ചെയ്യുന്നു ദാരിദ്ര്യ വശം ഏതെങ്കിലും തരത്തിലുള്ള ദുർബലത സജ്ജീകരണത്തിനുള്ള ഹോൾഡിംഗ് ഘടകമാണ് അതിനാൽ ജീവിതചക്രം ആസൂത്രണം ചെയ്യുന്നതിനുള്ള അവരുടെ ശേഷിയിലേക്കുള്ള പ്രവേശനവുമായി ഉപജീവന വശം നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെങ്ങനെ നമ്മൾ സാഹചര്യം കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല ജീവിതചക്ര ആസൂത്രണ സമീപനത്തിൽ തുടർച്ച എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമായത് മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം തന്നു നിങ്ങൾ അങ്ങനെ ചെയ്തു അത് തുടർച്ചയായിരിക്കണം ആ തുടർച്ച വശം നിങ്ങൾ അതിൽ കൊണ്ടുവരണം പുതിയതും നിലവിലുള്ളതുമായ കമ്മ്യൂണിറ്റി കെട്ടിടങ്ങളുടെ സംരക്ഷണവും നിർമ്മാണ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതിന് ആ തുടർച്ച വശം നിങ്ങൾ അതിൽ കൊണ്ടുവരണം അതിനാൽ ഇവിടെയാണ് ഭൌതിക ആസ്തികൾ തുടർച്ചയായി പരിപാലിക്കുകയും ജീവിതചക്ര ആസൂത്രണ സമീപനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നത് കപ്പാസിറ്റി നിർമ്മാണം കുറച്ച് ഘട്ടങ്ങളിലൂടെ എടുക്കാം ഒന്ന് ആസ്തികളും അവയുടെ അവസ്ഥയും തിരിച്ചറിയലാണ് അതിനാൽ ലിസ്റ്റുചെയ്തിരിക്കുന്ന കുറച്ച് പോയിന്റുകൾ ഇതാ ഒപ്പം ജോൺ ട്വിഗ്ഗ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള വിടവ് അതുപോലെ തന്നെ CBDRM സമീപനം ദുരന്തസാധ്യത കുറയ്ക്കൽ എന്നീ രണ്ട് പരാമർശങ്ങളും ഏതൊരു റിപ്പയർ മെയിന്റനൻസ് പ്രോഗ്രാമും കൈകാര്യം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള കമ്മ്യൂണിറ്റിയുടെ അനുഭവങ്ങൾ ലിസ്റ്റുചെയ്യുന്നതിനെക്കുറിച്ചും കഴിവുകൾ വിശകലനം ചെയ്യുന്നതിനെക്കുറിച്ചും അവർ സംസാരിച്ചു അതിനാൽ അവർക്ക് എന്തെങ്കിലും വൈദഗ്ദ്ധ്യം ഉണ്ടോ അവർക്ക് എന്തെങ്കിലും പ്രവർത്തന ഉപകരണങ്ങളോ രീതികളോ ഉണ്ടോ ഒരു പ്രത്യേക ദുരന്തത്തെ അവർ എങ്ങനെയാണ് സമീപിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും അവർക്ക് എങ്ങനെ ചില ഉപജീവന വശങ്ങളെ സമീപിക്കാൻ കഴിയും കമ്മ്യൂണിറ്റിയിലും പ്രാദേശിക അധികാരികളിലും അസറ്റ് മാനേജുമെന്റിനെക്കുറിച്ച് അവബോധവും കാപ്പാസിറ്റിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ ഒന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് അവബോധത്തെയും കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനുള്ള സമീപനത്തെയും കുറിച്ചാണ് അതിനാൽ ഇത് സമൂഹവുമായി മാത്രമല്ല പ്രാദേശിക അധികാരികൾക്കും സമൂഹത്തിന് നേരിട്ടും പ്രസക്തിയുണ്ട് കമ്മ്യൂണിറ്റി ആസ്തികളുടെ ഫിസിക്കൽ സർവേയും തിരിച്ചറിയലും പ്രാദേശിക കമ്മ്യൂണിറ്റിയുമായുള്ള ചർച്ചയിലൂടെ നന്നാക്കാനും നവീകരിക്കാനും നിങ്ങൾക്കറിയാവുന്ന കമ്മ്യൂണിറ്റിക്ക് പ്രസക്തമായത് എന്താണെന്നു ഒരാൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും കാരണം ഈ ചർച്ചയിൽ നിങ്ങൾ സമൂഹത്തെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ അവർക്ക് പ്രസക്തമായത് എന്താണെന്ന് തിരിച്ചറിയാനും അതിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അവർക്ക് തിരിച്ചറിയാനും കഴിയണം അത് മെച്ചപ്പെടുത്താൻ അവർ എങ്ങനെ ചില ശ്രമങ്ങളും ഫണ്ടുകളും ചിലവഴിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയണം നിങ്ങൾക്ക് അറിയാവുന്ന മറ്റ് ചില ഫണ്ടിംഗ് ഏജൻസികളുമായി അവർക്ക് ലിങ്ക് ചെയ്യാൻ എങ്കിലും കഴിയും അതിനാൽ ഒരു സംഭാഷണം എങ്ങനെ സംഭവിക്കാം എന്നതിന് വിവിധ മാർഗങ്ങളുണ്ടായിരുന്നു ഓഹരി ഉടമകളുടെ ഓറിയന്റേഷൻ പോളിസി മേക്കർമാർ അഡ്മിനിസ്ട്രേറ്റർമാർ അക്കൌണ്ടന്റുമാരുടെ കമ്മ്യൂണിറ്റി മേസൺമാർ എഞ്ചിനീയർമാർ ബിൽഡിംഗ് സെന്റർ മാനേജർമാർ സൂപ്പർവൈസർമാർ തുടങ്ങിയ വ്യത്യസ്ത ടാർഗെറ്റ് പ്രേക്ഷകർക്ക് റിപ്പയർ ചെയ്യുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള ചുമതല അവതരിപ്പിക്കുന്നു അതിനാൽ ഈ കെട്ടിടങ്ങളുടെ പട്ടികയായിരിക്കുമ്പോൾ ഒരിക്കൽ ഈ ഫലം അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് കൂടുതൽ നന്നാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഒരു പുതിയ ആവശ്യത്തിനായി ഞങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയുന്ന മേഖലകളാണിവ എന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഈ മുഴുവൻ ചുമതലയും പങ്കാളിയുമായി അവതരിപ്പിച്ചുകഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി മാത്രമല്ല പ്രാദേശിക അധികാരികളോടും നയരൂപകർത്താക്കളോടും ഒപ്പം ഏതെങ്കിലും കെട്ടിട കേന്ദ്രങ്ങളും അവയുടെ അധികാരികളും അവയുടെ സൂപ്പർവൈസർമാരും മേസൺ ഗ്രൂപ്പുകളും ഉണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കഴിയുന്ന ഒരു സഹകരണം ഉണ്ടായിരിക്കണം അത്തരം സഹകരണത്തിനായി നിങ്ങൾക്ക് അവരെ നയിക്കുകയും ചെയ്യാം സാങ്കേതിക ഗ്രൂപ്പിനുള്ള ശേഷി നിർമ്മാണം വാസ്തവത്തിൽ ഇത് വളരെ പ്രധാനമാണ് കാരണം അനുദിനം സാങ്കേതികവിദ്യ മാറിക്കൊണ്ടിരിക്കുന്നു വാസ്തവത്തിൽ പുതിയ സാങ്കേതികവിദ്യകൾ വരുന്ന ഓരോ 2 3 വർഷത്തിലും ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നിർമ്മാണത്തിന്റെ ചുമതല പുതിയ വെല്ലുവിളികൾ ഉയർന്നുവരുന്നു വിപണിയിലും സംവിധാനത്തിലും പുതിയ നിയന്ത്രണ ചട്ടക്കൂടുകൾ വരുന്നു അതിനാൽ സൂപ്പർവൈസർമാർക്കായി നടത്തുന്ന സ്പെഷ്യലിസ്റ്റ് പരിശീലന പരിപാടികൾ നോക്കേണ്ടത് അവിടെയാണ് കൂടാതെ അടിസ്ഥാന ഹൌസ് കീപ്പിംഗ് ചെറിയ അറ്റകുറ്റപ്പണികൾ ഒരു ബുക്ക് കീപ്പിംഗ് സൈറ്റ് മാനേജ്മെന്റ് ഗുണനിലവാര നിയന്ത്രണം മെറ്റീരിയലുകളുടെ സംഭരണം മാൻപവർ മാനേജ്മെന്റ് എന്നിവയെക്കുറിച്ചും ഇതിന് സംസാരിക്കാനാകും ഒരാൾക്ക് അത് എത്ര കാര്യക്ഷമമായി ചെയ്യാൻ കഴിയും ഗ്രാമത്തിനടുത്തുള്ള ഒരു പ്രാദേശിക മേസനെ നിങ്ങൾ പരിശീലിപ്പിക്കുകയാണെങ്കിൽ പ്രാദേശിക തലത്തിലുള്ള സമീപനങ്ങളോടെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് എന്നാൽ ഈ മുഴുവൻ പ്രക്രിയയും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പരിശീലിപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഫയൽ സൂക്ഷിക്കലും ബുക്ക് കീപ്പിംഗും ഉത്തരവാദിത്വത്തോടെ അറിയാമെങ്കിൽ അവൻ ഉത്തരവാദിത്തമുള്ളവനായിരിക്കും അവൻ തന്റെ ജോലിയിൽ സുതാര്യത നിലനിർത്തും അതിനാൽ ഈ സാങ്കേതിക വൈദഗ്ദ്ധ്യം മികച്ചതും അത് വളരെ ഉപയോഗപ്രദവും ആക്കുന്നത്തിനും അത് സാധൂകരിക്കുന്നതിനും കഴിയും ആസ്തികളുടെ അവസ്ഥ സർവേ അതിനാൽ എങ്ങനെ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ കൂടാതെ ഒരാൾക്ക് ഒരു ഇൻവെന്ററി ഉണ്ടാക്കാനും മുൻഗണനകൾ നിർണ്ണയിക്കാനും കഴിയും നിങ്ങൾക്ക് പരിമിതമായ ഫണ്ട് മാത്രമേ ഉള്ളൂ എന്നതിനാൽ എന്താണ് ആദ്യ മുൻഗണന നിങ്ങൾക്ക് എങ്ങനെ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിനും ദുരിതങ്ങളുടെയും ശുപാർശകളുടെയും വിശകലനത്തിനും മുൻഗണന നൽകാം ഇവിടെയാണ് വിശകലനം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് നിങ്ങളുടെ പ്രദേശത്ത് നൂറ് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അവയ്ക്ക് പുനരുദ്ധാരണമോ പുനർനിർമ്മാണമോ ആവശ്യമാണ് അതിനാൽ അതിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ദശലക്ഷം ഡോളർ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണ് ചെയ്യേണ്ട ആദ്യ ജോലി ഏതാണ് ഏറ്റവും മുൻഗണന നിങ്ങൾ ഒരു ഭവനത്തിൽ നിന്ന് ആരംഭിക്കുകയാണോ അതോ നിങ്ങൾ ഒരു ഉപജീവനത്തിൽ നിന്ന് ആരംഭിക്കുകയാണോ അതോ നിങ്ങൾ ഒരു മതത്തിൽ നിന്ന് ആരംഭിക്കുകയാണോ അതോ മുൻഗണന മനസ്സിലാക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിയാവുന്ന ഒരു മതത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ജോലികളുടെ എസ്റ്റിമേറ്റുകളും അറ്റകുറ്റപ്പണികളുടെ താരതമ്യ ചെലവ് ആനുകൂല്യങ്ങളും തയ്യാറാക്കുക ഇത് തീരുമാനമെടുക്കുന്നതിൽ സാമ്പത്തിക ശാസ്ത്രം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു മെറ്റീരിയലുകളുടെയും തൊഴിലാളികളുടെയും സംഭരണത്തിനുള്ള ആസൂത്രണം ഈ പ്രത്യേക അധ്വാനം കാരണം നിങ്ങൾ എങ്ങനെ തൊഴിൽ ശേഖരിക്കും പ്രത്യേകിച്ച് വിഷമകരമായ സാഹചര്യത്തിൽ ലഭ്യമായ മെറ്റീരിയലുകളുടെ സാധ്യതകളെ ആശ്രയിച്ച് നിങ്ങൾക്ക് മെറ്റീരിയലുകൾ ആക്സസ് ചെയ്യാൻ കഴിഞ്ഞേക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ തൊഴിൽ നിലവാരം പോലും ലഭിച്ചേക്കില്ല അതിനാൽ നമുക്ക് അത് എങ്ങനെ ഏകോപിപ്പിക്കാനാകും ദുരിതത്തിന്റെ വിശകലനം ശുപാർശകൾ എങ്ങനെയാണു സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് തുടങ്ങി എല്ലാം ചിലവും കുറഞ്ഞതായിരിക്കണം ജോലികൾക്കുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ തൊഴിൽ സാമഗ്രികൾ വാങ്ങുന്നതിനുള്ള താരതമ്യവും ആസൂത്രണവും ഇവയെല്ലാം ഇതിൽ പെടുന്നു പിന്നെ പ്രകടനങ്ങൾ പ്രധാന സൈറ്റുകളിൽ കമ്മ്യൂണിറ്റി അസറ്റ് മാനേജ്മെന്റിന്റെ പ്രദർശനം പുനർനിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് പങ്കാളികൾക്ക് ശരിയായ കഴിവുകളും പങ്കിട്ട ധാരണയും ഉണ്ടെന്ന് ഉറപ്പാക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ സർവേ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ തുല്യമായ ഇൻവെന്ററികൾ പൂർത്തിയാക്കി വിശകലനത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾ ചുമതലകൾക്ക് മുൻഗണന നൽകാം നിങ്ങൾക്ക് അതിലേക്ക് ചില പ്രോഗ്രാം ശുപാർശ ചെയ്തിട്ടുണ്ട് അത് പ്രവർത്തനത്തിൽ ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ് പ്രധാനപ്പെട്ട സൈറ്റുകളിൽ നിങ്ങൾ പ്രദർശിപ്പിക്കേണ്ടത് ഇവിടെയാണ് അത് നിർമ്മിക്കേണ്ട ഒരു സൈറ്റായാലും അല്ലെങ്കിൽ അത് ഒരു പ്രാദേശിക അതോറിറ്റിയായാലും അത് ഒരു ഫണ്ടിംഗ് ഏജൻസിയായാലും എല്ലാ പരിശീലന പരിപാടികളും നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്കറിയാവുന്ന പുനർനിർമ്മാണത്തിനായി പോകാൻ ഞങ്ങൾ തയ്യാറാണ് അതിനാൽ ഞങ്ങൾ ഒരു മോഡൽ പരീക്ഷിച്ചു തുടർന്ന് ഞങ്ങൾക്ക് ഇത് എങ്ങനെ സ്കെയിൽ ചെയ്യാം കമ്മ്യൂണിറ്റി അസറ്റ് മാനേജ്മെന്റ് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് അതുപോലെ കമ്മ്യൂണിറ്റികൾ അടിസ്ഥാനമാക്കിയുള്ള ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് പ്രോജക്റ്റായ CBDRM പ്രോജക്റ്റുകളെ ജോൺ ട്വിഗ് പരാമർശിക്കുന്നു ഗെസ്റ്റോ ഡി റിസ്കോ നിവേൽ ഡാ കമുനിഡേഡിന്റെ ഈ മാനേജ്മെന്റിലേക്ക് വന്നതിന് അദ്ദേഹം ഒരു ഉദാഹരണം നൽകുന്നു എഡ്വേർഡോ മൊണ്ടേലുമായി സഹകരിച്ച് വേൾഡ് വിഷൻ രൂപകൽപ്പന ചെയ്ത മൊസാംബിക്കിലെ ജെറാൻഡോ രീതി അതാണ് 2006 മുതൽ 2010 വരെ 30 ലധികം പ്രോജക്റ്റുകൾ പൈലറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റി ഏകദേശം 4 വർഷമായി ഈ CBDRM രീതി ഉപയോഗിച്ച് ഗെസ്റ്റോ ഡി റിസ്കോ നിവേൽ ഡാ കമുനിഡെഡ് ഏകദേശം 30 പ്രോജക്റ്റുകൾ വരെ സ്കെയിൽ ചെയ്തു എന്താണ് ജെറാൻഡോ അപകടകരമായ ആഘാതങ്ങൾ തിരിച്ചറിയുന്നതിനും പ്രവചിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള പ്രാദേശിക ശേഷികളെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് ജെറാൻഡോ അതിനാൽ ഈ പ്രക്രിയയിൽ പരസ്പരബന്ധിതമായ 6 ഘട്ടങ്ങൾ അടങ്ങിയിരിക്കുന്നു അതിനെക്കുറിച്ച് ഞാൻ ഹ്രസ്വമായി വിശദീകരിക്കും പ്രാദേശിക കമ്മ്യൂണിറ്റിയിലെ പരിശീലനം ലഭിച്ച ഒരു അംഗം ഇത് സുഗമമാക്കി അതിനാൽ ഓരോ കമ്മ്യൂണിറ്റിയിലും ഒരു പ്രാദേശിക ഡിആർഎം കമ്മിറ്റി സ്ഥാപിക്കുക എന്നതാണ് ആദ്യ വശം അതിനാൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റിയുണ്ട് തുടർന്ന് ഓരോ കമ്മ്യൂണിറ്റിയിലും ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റിയായ ഒരു ഡിആർഎം കമ്മിറ്റി സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുക അതിനാൽ ജെറാൻഡോ ഫെസിലിറ്റേറ്റർ സാധാരണയായി കമ്മ്യൂണിറ്റി കോർഡിനേറ്ററാണ് അദ്ദേഹം അടുത്ത 5 ഘട്ടങ്ങളിലൂടെ കമ്മിറ്റിയെയും സമൂഹത്തെയും നയിക്കുന്നു അതിനാൽ കമ്മിറ്റി അഭിമുഖീകരിക്കുന്ന കാര്യമായ ആഘാതങ്ങളും സമ്മർദങ്ങളും തിരിച്ചറിയുകയും അത് വരൾച്ച മൂലമാണോ പട്ടിണിയാണോ യുദ്ധമാണോ അതാണോ അതിനാൽ സമൂഹത്തിലെ മറ്റുള്ളവരുമായി യഥാർത്ഥത്തിൽ ഏകോപിപ്പിക്കുകയും ദുർബലതയും ശേഷി വിലയിരുത്തലും നടത്തുന്നതും കമ്മ്യൂണിറ്റി കോർഡിനേറ്ററാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അതിനാൽ ഇവിടെയാണ് നമുക്ക് ഏത് തരത്തിലുള്ള അപകടസാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചും എന്താണ് മുൻഗണന കാരണം ഇവിടെയാണ് നിങ്ങൾ വിശകലനത്തിന്റെ ഭാഗം മനസ്സിലാക്കേണ്ടത് ശാസ്ത്രീയവും പരമ്പരാഗതവും തദ്ദേശീയവുമായ മുൻകൂർ മുന്നറിയിപ്പ് സൂചകങ്ങൾ തിരിച്ചറിയുക അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങളാണ് ഉള്ളതെന്ന് ഒരാൾ മനസ്സിലാക്കണം അങ്ങനെ നമുക്ക് ഇവ സമൂഹത്തെ അറിയിക്കാൻ എങ്ങനെ കഴിയും എന്നും മനസിലാക്കണം ഇവിടെയാണ് അഞ്ചാമത്തെ ഘട്ടം ലഘൂകരണ പദ്ധതികൾ വികസിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഉചിതമെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഡിസാസ്റ്റർ തയ്യാറെടുപ്പ് പ്ലാൻ തയ്യാറാക്കുക അതിനാൽ ഒരിക്കൽ ഞെട്ടൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ സമൂഹം ചെലുത്തുന്ന സമ്മർദ്ദം എന്താണ് ശേഷി വിലയിരുത്തലിലെ പരാധീനത ഒരാൾക്ക് മനസിലാക്കാനും തിരിച്ചറിയാനും കഴിയും ശാസ്ത്രീയവും പരമ്പരാഗതവും അല്ലെങ്കിൽ തദ്ദേശീയവുമായ മുൻകൂർ മുന്നറിയിപ്പ് സൂചകങ്ങൾ എന്തൊക്കെയാണ് എന്നും വിലയിരുത്താം അതിനാൽ അവർക്ക് ലഘൂകരണ പദ്ധതികൾ മനസ്സിലാക്കാനും നടപ്പിലാക്കാനും കഴിയും കാരണം ഓരോന്നും ബന്ധപ്പെട്ടിരിക്കുന്നു അവിടെയാണ് ഒരാൾക്ക് ഒരു കമ്മ്യൂണിറ്റി തലത്തിലുള്ള ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കാൻ കഴിയുക അതിനാൽ ഇത് മൊസാംബിക്കിന്റെ ഒരു തരം വെബ്സൈറ്റാണ് വെള്ളപ്പൊക്കത്തിലും ചുഴലിക്കാറ്റിലും ഇരയായവരും വികലാംഗരും മുതൽ തുടങ്ങിയവർക്കായി നിരവധി പദ്ധതികൾ ഉണ്ട് നിങ്ങൾക്കറിയാം കുട്ടികൾ ഇരകലാകുന്നു എന്ന് അതിനുള്ളിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട് എന്നാൽ ഒരു പ്രധാന വെല്ലുവിളി ഔദ്യോഗിക ദുരന്ത നിവാരണ സംഘടനകളാണ് അനൌപചാരിക സോഷ്യൽ ഓർഗനൈസേഷന്റെയോ നെറ്റ്വർക്കിന്റെയോ സാധ്യതകളെ അവർ കുറച്ചു കാണാൻ അവർ ശ്രമിക്കുന്നു അത് അയൽപക്കമോ കുടുംബങ്ങളോ ബന്ധുത്വ ഗ്രൂപ്പുകളോ ആകട്ടെ അതിനാൽ ആദ്യ ഘട്ടത്തിൽ ഈ കമ്മ്യൂണിറ്റി വളരെ ചെറിയ സ്ഥലങ്ങളായിരിക്കാം പക്ഷേ അവർ ഇതിനെ വിലകുറച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന ഔദ്യോഗിക പ്രക്രിയകളും ബാധിത കമ്മ്യൂണിറ്റികളുടെയോ ഗ്രൂപ്പുകളുടെയോ ഉദാഹരണങ്ങൾ നമുക്കറിയാം തിരച്ചിൽ രക്ഷാപ്രവർത്തനം ഭക്ഷണവും വെള്ളവും നൽകുന്നത് എല്ലാം അപ്രസക്തമായത്പോലെയാണ് കാണുന്നത് കമ്മ്യൂണിറ്റി പരസ്പരം പിന്തുണയ്ക്കുന്ന രീതി അവർ പലപ്പോഴും അവഗണിക്കുകയോ ചവറ്റുകുട്ടയിലാക്കുകയോ അപ്രസക്തമോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നു കാരണം അവ അധികാരികൾ നിർദ്ദേശിച്ചിട്ടില്ല കാരണം അവ ഔദ്യോഗികമായി നിർദ്ദേശിച്ചിട്ടില്ല അതിനാൽ മിക്ക ഔദ്യോഗിക സജ്ജീകരണങ്ങളും നിലവിലുള്ള ഈ കമ്മ്യൂണിറ്റി നെറ്റ്വർക്കുകളെ അവഗണിക്കുന്നു തദ്ദേശീയ ശൃംഖലകൾ അവർ എങ്ങനെ സഹകരിക്കുന്നു എങ്ങനെ ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നു ദുരന്തത്തെ അവർ എങ്ങനെ മനസ്സിലാക്കുന്നു ഫലപ്രദമായ ഒരു സിബിആർഡിഎമ്മിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സാമൂഹിക മൂലധനം ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സാമൂഹിക മൂലധനം എന്ന പദം പുട്ട്നാമിന്റെ പ്രവർത്തനത്തെ നിങ്ങൾ പരാമർശിക്കുകയാണെങ്കിൽ അത് പറയുന്നത് ആളുകൾ അവരുടെ ലക്ഷ്യങ്ങൾ പിന്തുടരാൻ ഉപയോഗിക്കുന്ന സാമൂഹിക ഉറവിടങ്ങളെയാണ് വ്യക്തികൾ തമ്മിലുള്ള നെറ്റ്വർക്കുകളും കണക്ഷനുകളും ഗ്രൂപ്പുകളുടെ അംഗത്വവും വിശ്വാസത്തിന്റെയും കൈമാറ്റത്തിന്റെയും ബന്ധങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അത് ഒരു തിരശ്ചീന മൂലധനമായിരിക്കാം അത് ഒരു ലംബ മൂലധനമായിരിക്കാം അത് ഒരു ഗ്രൂപ്പിനുള്ളിലെ ഒരു ശൃംഖലയാകാം അത് ഗ്രൂപ്പുകളിലുടനീളം ആകാം നിങ്ങൾ ഒരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരികയും ശക്തവും നിലനിൽക്കുന്നതുമായ സാമൂഹിക ബന്ധത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ഒരാൾ മനസ്സിലാക്കണം ഇത് ഒരു പ്രതിസന്ധിയാണ് ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള അവസരവും ഇത് നൽകുന്നു എന്ന് മനസിലാക്കണം ഉൾപ്പെടുത്തലും പ്രതീക്ഷകളും അവിടെയാണ് പങ്കാളിത്തം എന്ന ചിന്തയും കടന്നു വരുന്നത് ആരെ ഉൾപ്പെടുത്തണം എങ്ങനെ ഉൾപ്പെടുത്തണം അവർക്കെല്ലാം വ്യത്യസ്തമായ പ്രതീക്ഷകൾ ഉള്ളതിനാൽ ഏതു തരത്തിലു ള്ള പങ്കാളിത്തരീതികൾ വേണം എന്നത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു പങ്കാളിത്തത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ വിജയകരമായ 3 ടിയുടെ ഒരു കുറിപ്പും ഇവിടെയുണ്ട് വ്യക്തത തുറന്ന മനസ്സ് ഉത്തരവാദിത്തം എന്നിവ ആവശ്യമുള്ള സുതാര്യതയെക്കുറിച്ച് ആദ്യ ടി സംസാരിക്കുന്നു കൂടാതെ ഇടപെടലുകളുടെ പോരായ്മകളെക്കുറിച്ചും അവയുടെ നേട്ടങ്ങളെക്കുറിച്ചും സമൂഹങ്ങളെ അറിയിക്കേണ്ടതിന്റെ ആവശ്യകതയെ അത് മാനിക്കുന്നു സമയം രണ്ടാമത്തെ വശം സമയമാണ് രണ്ടാമത്തെ വശം സമയമാണ് കമ്മ്യൂണിറ്റികൾ പുറത്തുനിന്നുള്ളവർ ഇന്റർമീഡിയറ്റ് എന്നിവയ്ക്കിടയിൽ അർത്ഥവത്തായ ബന്ധം കെട്ടിപ്പടുക്കേണ്ടത് ആവശ്യമാണ് ഇതിനിടയിൽ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും പ്രക്രിയയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ കമ്മ്യൂണിറ്റികളെ പ്രാപ്തരാക്കുന്നതിനും സമയം അനിവാര്യമാണ് മൂന്നാമത്തെ T വിശ്വാസം ആണ് ഇത് സുതാര്യതയുടെയും പങ്കാളിത്ത പ്രക്രി യയി ലെ സമയത്തി ൻറെയും ഫലമാണ് അതിനാൽ ഇത് രണ്ടും വ്യക്തമായും കമ്മ്യൂ ണിറ്റികൾക്കിടയിൽ ഒരു വി ശ്വാ സം സൃഷ്ടി ക്കും നി ങ്ങൾ സുതാര്യമാണ് ഒരിക്കൽ നിങ്ങൾ കാര്യങ്ങൾ സുതാര്യവും ഉത്തരവാദിത്തവും അർത്ഥവത്തും വ്യക്തവും ആക്കിക്കഴിഞ്ഞാൽ അവിടെ തീർച്ചയായും നിങ്ങൾക്ക് കമ്മ്യൂ ണിറ്റികളും പുറത്തു നിന്നുള്ളവരും ഇടനിലക്കാരും തമ്മിലുള്ള ബന്ധം കെട്ടി പ്പടുക്കുവാൻ സാധിക്കും കൂടാതെ പ്രക്രിയയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ ഇത് നിങ്ങളെ പ്രാപ്തമാക്കുകയും ഒടുവിൽ അത് വിശ്വാസത്തെ വളർത്തുകയും ചെയ്യും എന്നാൽ ചോദ്യം ഇതാണ് CBDRM പ്ര വർത്തനങ്ങളിൽ എല്ലാവരെയും എല്ലായ്പ്പോഴും ഉൾപ്പെടുത്തുന്നത് പ്രായോഗികമാണോ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് ഏതൊരു എൻജിഒയ്ക്കും ഇത് പരിഹരിക്കാൻ വളരെ ബു ദ്ധിമു ട്ടു ള്ള കാര്യമാണ് ഏറ്റവും ദുർബലരായവർ ഉൾപ്പെടുന്ന ചില പ്രധാന ടൂളുകൾ ബാധിക്കപ്പെട്ട ആൾക്കാർ ഇടയ്ക്കിടെ ടാർഗെറ്റു ചെയ്യപ്പെടുന്നവർ അല്ലെങ്കിൽ ഭീഷണി നേരിടുന്നവർ അവരെ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അത് പ്രധാ നപ്പെട്ട ഘട്ടങ്ങളിലൊന്നാണ് വിവരങ്ങൾ കൊണ്ടുവരുന്നതിൽ ഒരു തുറന്ന മനസ് കൊണ്ടുവരിക നിങ്ങൾ വളരെ സുതാര്യമായിരിക്കേണ്ടതുണ്ട് തീരുമാനമെടുക്കൽ പ്രക്രിയ എന്താണ് അത് എങ്ങനെ ചെയ്തു എങ്ങനെ വികസിപ്പിച്ചെടുത്തു ഏത് തരത്തിലുള്ള തന്ത്രമാണ് അവർ നടപ്പിലാക്കാൻ പോകുന്നത് എന്നീ കാര്യങ്ങൾ കൂടുതൽ സുതാര്യമായി കൊണ്ടുവരിക ഉള്ളതും ഇല്ലാത്തതും തമ്മിൽ ശക്തിയും ദുര്ബലതയും തമ്മിൽ ശക്തിയില്ലാത്തതും ശക്തിയുള്ളതും തമ്മിൽ ഈരീതിയിൽ ഏതൊരു സമൂഹത്തിലും എപ്പോഴും ഒരു അധികാര ബന്ധമുണ്ട് അതിനാൽ കമ്മ്യൂണിറ്റികളിലുടനീളവും ഇത് ഒരു പ്രത്യേക ശക്തി വശമുള്ള വ്യക്തിയെ അഭിസംബോധന ചെയ്യുക മാത്രമല്ല അധികാരമി ല്ലാത്തവരെ കൂടി അഭിസംബോധന ചെയ്യണം അതിനാൽ നിങ്ങൾ അവരെ സമവായത്തിലേക്ക് കൊണ്ടുവരിക അങ്ങനെയെങ്കിൽ ഒരാ ൾക്ക് ഒരു ട്രസ്റ്റ് കെട്ടിപ്പടുക്കേണ്ടി വരുന്നതിനാൽ പുറത്തുള്ള ഒരാൾക്ക് യഥാർത്ഥത്തിൽ എങ്ങനെ വന്ന് അകത്തുള്ളവരുമായി ഇടപഴകാൻ കഴിയും അവിടെയാണ് പ്രാദേശിക അധികാരികൾ പ്രാദേശിക ഏജൻസികൾ അത് പള്ളിയായാലും മുനിസിപ്പൽ അതോറിറ്റിയായാലും അവർ എങ്ങനെയാണ് അകത്തും പുറത്തുമുള്ള വ്യക്തികൾ തമ്മി ലുള്ള ഒരു ഇടപെടൽ കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് എന്ന് നമ്മുക്ക് മനസിലാക്കാൻ സാധിക്കും അതിനാൽ CBDRM എങ്ങനെസുഗമമാക്കാം ഒരു അന്താരാഷ്ട്ര NGO അവർ സമൂഹത്തെ സമീപിക്കാൻ ശ്രമിക്കുമ്പോൾ കമ്മ്യൂണിറ്റിയു മായി പ്രവർത്തിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇരുവരും വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്ത പവർ സെറ്റപ്പുകളിൽ നിന്നും വ്യത്യസ്ത ലക്ഷ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത പ്രതീക്ഷകളിൽ നിന്നുമാണ് വരുന്നത് അതുകൊണ്ടു ഒരു എൻട്രി പോയിന്റ് സൃഷ്ടിക്കുക ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇവയ്ക്കും ഏജൻസിക്കുമിടയിൽ എങ്ങനെ ഒരു പങ്കാളിത്തം എന്നപാലം കെട്ടിപ്പടുക്കാൻ കഴിയും എന്നതിൽ പ്രാദേശിക അധികാരികൾ ഒരു പ്രധാന പങ്ക് വഹിക്കേണ്ടതുണ്ട് അവരെ സഹായിക്കാൻ വരുന്നതും അവരുടെ കൂടെ ജോലിക്ക് പോകുന്ന ഗുണഭോക്താക്കൾക്കും ഇടയിലും ഈ പങ്കാളിത്തം വേണം എന്റെ കാര്യത്തിൽപോലും തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിൽ പോയപ്പോൾ അവർ എന്നെ വിശ്വസിച്ചില്ല കാരണം എന്നെ അവർ ഒരു അന്യനായി കണക്കാക്കി അതുകൊണ്ടു ഞാൻ എന്ത് ചെയ്തു ഞാൻ പള്ളിയിൽ പോയി ഞാൻ പിതാവിനെ കണ്ടു ഈ കമ്മ്യൂണിറ്റികളെക്കുറിച്ചും സുനാമി പ്രഭാവത്തെക്കുറിച്ചും ഗവേഷണം നടത്തുന്ന ഒരാളാണ് താനെന്നു അച്ഛൻ എന്നെ എല്ലാവര്ക്കും പരിചയപ്പെടുത്തി കൊടുത്തു അടുത്തദിവസം മുതൽ ആളുകൾ എന്നോട് സഹകരിക്കാൻ തുടങ്ങി അങ്ങനെ സഹകരണവും ഒപ്പം കുറച്ച് വിശ്വാസവും വളർത്തിയെടുത്തു അതിനാൽ എന്റെ പ്രക്രിയയിലേക്കും രീതികളിലേക്കും ഞാൻ തിരിച്ചുവരൻ തുടങ്ങി പങ്കാളിത്ത പഠന PLA പ്രവർത്തന രീതികൾ ടൂളുകൾ എന്നിവയെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു ഒന്ന് സ്പേഷ്യൽ ആണ് അത് മാപ്പിംഗിനെയും മോഡലിംഗിനെയും കുറിച്ച് സംസാരിക്കുന്നു ഇത് അപകടസാധ്യതകളും ദുർബലതയും വിലയിരുത്തുന്നതിന് വളരെ ഉപയോഗപ്രദമാണ് അപകടങ്ങളും അപകടകരമായ സ്ഥലങ്ങളും തിരിച്ചറിയാൻ ഇത് ഉപയോഗിക്കാം സമൂഹത്തിന് ഇതിനെക്കുറിച്ച് ഇതിനകം അറിയാവുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ മണ്ണൊലിപ്പ് സസ്യങ്ങളുടെ നഷ്ടം അല്ലെങ്കിൽ കീടങ്ങളുടെ ആക്രമണം എന്നിവയാൽ ബാധിച്ച പ്രദേശങ്ങൾ ദുർബലരായ ഗ്രൂപ്പുകളെയും കമ്മ്യൂണിറ്റിയിലെ കഴിവുകളെയും ആസ്തികളെയും ആദ്യം തിരിച്ചറിയുക അതിനാൽ ഒന്ന് നിങ്ങൾക്ക് അത് എങ്ങനെ അഭിസംബോധന ചെയ്യാം സ്പേഷ്യൽ മാപ്പിംഗിലും മോഡലിംഗിലും അതൊരു ഹൈഡ്രോളജിക്കൽ മോഡലിംഗ് ആണെങ്കിലും അത് ഒരു റിമോട്ട് സെൻസിംഗ് വശങ്ങൾ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകൾ എന്തുതന്നെയായാലും അപകടസാധ്യതയെക്കുറിച്ചുള്ള സ്പേഷ്യൽ ധാരണ നാം മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമത്തെ വശം നാമമാത്രമാണ് അത് ശേഖരിക്കൽ പേരിടൽ അല്ലെങ്കിൽ ലിസ്റ്റിംഗ് എന്നിവയാണ് അതിന് കമ്മ്യൂണിറ്റികളെയും അവയുടെ പരിസ്ഥിതിയെയും കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും ഉദാഹരണത്തിന് ആരൊക്കെയാണ് ഗുണഭോക്താക്കൾ ഏത് തരത്തിലുള്ള വിളകളാണ് അവർക്ക് നഷ്ടമായത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഭക്ഷ്യപ്രതിസന്ധി ആരോഗ്യപ്രശ്നങ്ങൾ ആവൃത്തിയിലോ പ്രാധാന്യത്തിലോ ഉള്ള ആരോഗ്യപ്രശ്നങ്ങൾ വനനശീകരണത്തിന്റെ അനന്തരഫലങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാരണങ്ങളും എത്രമാത്രം അത് കൈകാര്യം ചെയ്യുന്നതിനുള്ള തന്ത്രങ്ങളുടെ ക്രമവും പരിശോധിക്കാം താൽക്കാലികം വ്യക്തിപരവും പാരിസ്ഥിതികവുമായ ചരിത്രങ്ങൾ ദുരന്ത സമയരേഖകൾ ദുരന്ത ദൃശ്യവൽക്കരണം കാലാനുസൃതമായ കലണ്ടറുകൾ കമ്മ്യൂണിറ്റി ടൈംലൈനുകൾ അല്ലെങ്കിൽ ഇവന്റുകൾ പുനരവതരിപ്പിക്കൽ എന്നിവയിലൂടെയാണെങ്കിലും ഈ സംഭവങ്ങളെല്ലാം ഒരു ശ്രേണിയിൽ ഉൾപ്പെടുത്തുക കാരണം ഈ രീതികൾ യഥാർത്ഥത്തിൽ ദുർബലതയുടെ മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം വെളിപ്പെടുത്തും ഏതെങ്കിലും ദുരന്തത്തിന്റെ ചരിത്രപരമായ റെക്കോർഡും അതിന്റെ ആഘാതവും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എവിടേക്കാണ് പുരോഗമിക്കുന്നത് അത് യഥാർത്ഥത്തിൽ എവിടേക്കാണ് പോകുന്നതെന്ന് ഒരാൾക്ക് കാണാൻ കഴിയും അതിനാൽ ഞങ്ങൾക്ക് നിങ്ങളെ ഫലപ്രദമായി അറിയാൻ കഴിയും ആ തയ്യാറെടുപ്പ് വശങ്ങൾ നോക്കുക എന്താണ് തെറ്റ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം അതുവഴി നമുക്ക് ഒരു ബദൽ സംവിധാനങ്ങൾക്കായി നോക്കാം ഓർഡിനൽ ഓർഡിനൽ സോർട്ടിംഗ് താരതമ്യപ്പെടുത്തൽ റാങ്കിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഏറ്റവും ദുർബലരായ വ്യക്തികളെയും കുടുംബങ്ങളെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് സംഖ്യാശാസ്ത്രം അതിന്റെ മിക്ക സാമ്പത്തിക വശങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു ദുരന്തനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും സാധാരണഗതിയിൽ ഏതെങ്കിലും ജില്ലാ ഏജൻസി ഇക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്ന അളവ് കണക്കാക്കുന്നതിനും ഇത്തരത്തിലുള്ള കൌണ്ടിംഗ് എസ്റ്റിമേറ്റ് താരതമ്യപ്പെടുത്തൽ സ്കോർ ചെയ്യൽ രീതികൾ എന്നിവ ഉപയോഗിക്കാം ജീവനോപാധിയുടെ ശേഖരത്തിൽ എത്രത്തോളം കേടുപാടുകൾ സംഭവിച്ചു എത്ര മൃഗങ്ങൾ കൊല്ലപ്പെട്ടു ഇങ്ങനെയാണ് സംഖ്യകൾ ഉപയോഗിച്ച് കൂടുതലും വിലയിരുത്തുന്നത് റിലേഷണൽ ഇത് പലപ്പോഴും നമ്മൾ എങ്ങനെ ലിങ്ക് ചെയ്യുന്നു എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു കമ്മ്യൂണിറ്റിയുടെ വിവിധ ഭാഗങ്ങൾ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വ്യത്യസ്ത ഫെസിലിറ്റേറ്റർമാർ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവർ എങ്ങനെയാണ് അധികാര ഘടനകളെ തിരിച്ചറിയുന്നത് അതിന് ഒരു കാരണത്തെ മറ്റൊരു ആഘാതവുമായും ഒരു ആഘാതത്തെ അതിന്റെ മറ്റൊരു കാരണവുമായും ബന്ധപ്പെടുത്താൻ കഴിയും അതിനാൽ വരൾച്ചയുടെ പ്രത്യാഘാതങ്ങൾ ഒരു ഭൂവുടമസ്ഥത ക്രമീകരണവുമായോ പ്രോബ്ലം ട്രീ ഉപയോഗിച്ച് ജൻഡർ ബേസ്ഡ് തൊഴിൽ വിഭജനവുമായോ ബന്ധിപ്പിച്ചേക്കാം അതിനാൽ A യുടെ വളരെ സങ്കീർണ്ണമായ ഒരു പ്രതിഭാസത്തെ B യുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇതെല്ലാം ഒപ്പം B C യുമായി ലിങ്ക് ചെയ്യുന്നു C D യുമായി ലിങ്ക് ചെയ്യുന്നു എന്നാൽ D വീണ്ടും A യുമായി ലിങ്ക് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ട്രീ വികസിപ്പിച്ചെടുക്കാമെന്ന് നിങ്ങൾക്കറിയാം യഥാർത്ഥത്തിൽ ഔദ്യോഗിക വികസന ആസൂത്രണവുമായി സിബിആർഡിആർഎമ്മിനെ എങ്ങനെ സംയോജിപ്പിക്കാം എന്നത് പ്രധാന വെല്ലുവിളികളിലൊന്നാണ് നേപ്പാളിലെ ചിത്വാൾ നവൽപരാസി ജില്ലകളിലെ 59 ഗ്രാമവികസന സമിതികളിൽ ഒരു പ്രാക്ടിക്കൽ ആക്ഷൻ ഗ്രൂപ്പ് പ്രവർത്തിച്ചിരുന്നതും ഗവൺമെന്റിന്റെ ഏറ്റവും താഴ്ന്ന ഭരണ യൂണിറ്റുകളുമായ നേപ്പാളിലെ ഭണ്ഡാരിയുടെയും മലക്കറിന്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർ നൽകിയ ഒരു നല്ല സംഭവമാണിത് നിങ്ങൾക്ക് ഈ VDC കൾ ഉണ്ട് ഗ്രാമവികസന സമിതികൾ ഡിആർഎമ്മുകളെ തയ്യാറാക്കുന്നതിനായി അവർ ഡിആർഎം പ്ലാനുകൾ തയ്യാറാക്കും തുടർന്ന് ഓരോ വിഡിസിയിലും വാർഡ് കമ്മ്യൂണിറ്റി തലത്തിലുള്ള ദുർബലത വിലയിരുത്തൽ നടത്തും അതിനാൽ വീണ്ടും ഓരോ വിഡിസിയിലും വാർഡ് തല വിലയിരുത്തൽ നടത്തിയതിനു ശേഷമാണു അവർ പ്രാദേശിക ഡിആർഎം പ്ലാനിംഗ് വർക്ക്ഷോപ്പുകൾ രൂപീകരിക്കുന്നത് അതിനാൽ ഗവൺമെന്റ് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകൾ സാങ്കേതിക വിദഗ്ധർ എന്നിവരുടെ പ്രാതിനിധ്യം ഉണ്ടാവും തുടർന്ന് പ്രാദേശിക വികസന പദ്ധതികളിൽ അതാത് വിഡിസിയുടെ പ്ലസ് മുനിസിപ്പൽ കൌൺസിലുകൾ അംഗീകരിച്ച വിവിധ പദ്ധതികളോടെയുള്ള അന്തിമ പദ്ധതികൾ അംഗീകരിക്കപ്പെടുകയും പ്രാദേശിക വികസന പദ്ധതികളും പിന്നീട് ഡിഡിപിയായി വികസിപ്പിക്കുകയും ചെയ്യുന്നു ഡിഡിസിയുടെ ജില്ലാ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി ജില്ലാ വികസന സമിതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് പ്രാദേശിക ദുർബലത വിലയിരുത്തലുകളിൽ നിന്ന് ഇത് ജില്ലാ തലത്തിൽ തിരിച്ചറിഞ്ഞത് അതിനാൽ ഇത് ഒരു ചെറിയ വിഭാഗത്തിൽ നിന്ന് ഒരു ജില്ലാ തലത്തിലേക്ക് വികസിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണ് അതിനാൽ വിജയകരമായ CBDRM ന്റെ ഭാവി എന്താണ് ഞങ്ങൾ അത് എങ്ങനെ അളക്കും തീർച്ചയായും IFRC റെഡ് ക്രോസും റെഡ് ക്രസന്റ് സൊസൈറ്റികളും യഥാർത്ഥത്തിൽ വിജയകരമായ ഒരു കമ്മ്യൂണിറ്റി അധിഷ്ഠിത DRR പ്രോഗ്രാമിന്റെ 9 പ്രധാന നിർണ്ണായക ഘടകങ്ങളെ പരിശോധിച്ചു കമ്മ്യൂണിറ്റിയുടെയും കമ്മ്യൂണിറ്റി നേതാക്കളുടെയും പ്രചോദനവും ശേഷിയും അങ്ങനെ അത് സമൂഹത്തെ പ്രചോദിപ്പിച്ചു കൂടാതെ റെഡ് ക്രോസ് റെഡ് ക്രസന്റ് പങ്കാളികളുടെ പ്രേരണയും ശേഷിയും അവർ തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ ശക്തിയിലാണ് അത് ഏത് തരത്തിലുള്ള പങ്കാളിത്തമാണ് എന്ന് സ്ഥാപിച്ചത് ബാഹ്യ അഭിനേതാക്കളുടെയും എൻജിഒകളുടെയും സ്വകാര്യ മേഖലയുടെയും ശേഷിയും അവരുമായുള്ള പങ്കാളിത്തത്തിന്റെ ശക്തിയും ലെവൽ CBDRM പ്രോഗ്രാമിന്റെ കമ്മ്യൂണിറ്റി പങ്കാളിത്തത്തിന്റെയും ഉടമസ്ഥതയുടെയും മറ്റ് മേഖലകളുമായുള്ള സംയോജനത്തിന്റെ നിലവാരം എന്നിവയെല്ലാം മനസിലാക്കി അതിനാൽ ഞങ്ങൾ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് മാത്രമല്ല സംയോജനത്തെക്കുറിച്ചും സംസാരിക്കുന്നു പ്രോഗ്രാം രൂപകൽപ്പനയിൽ സ്റ്റാൻഡേർഡൈസേഷനും ഫ്ലെക്സിബിലിറ്റിയും ഉള്ള ഉചിതമായ ബാലൻസ് ഉണ്ടായിരിക്കുകയും CBDRM പ്രോഗ്രാം നടപ്പിലാക്കാൻ മതിയായ സമയം ലഭിക്കുകയും ചെയ്യുന്നു കാരണം ഇവയെല്ലാം വളരെയധികം സമയമെടുക്കുന്ന പ്രക്രിയയാണ് കൂടാതെ CBDRM പ്രോഗ്രാം നടപ്പിലാക്കുന്നതിന് മതിയായ ഫണ്ടിംഗ് ഉണ്ട് അവർ ഇതെല്ലം വളരെ നന്നായി ഏകോപിപ്പിക്കുന്നു അതിനാൽ മതിയായ മൂല്യനിർണ്ണയ നിരീക്ഷണവും മൂല്യനിർണ്ണയ നടപടിക്രമവും ചേർത്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഫണ്ടിംഗ് സൃഷ്ടിക്കാം എന്നതും പ്രധാനപ്പെട്ട പദമാണ് ആനുകാലികമായി ഒരാൾക്ക് ഇത് എങ്ങനെ വിലയിരുത്താം എന്നതിന്റെ ഒരു തുടർച്ച ചക്രം ലഭിക്കുന്നതിന് ഇത് വീണ്ടും തിരികെ പോകുന്നു അതിനാൽ CBDRM എന്താണെന്നും കമ്മ്യൂണിറ്റി അസറ്റ് മാനേജുമെന്റിനെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു ആശയം ലഭിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു നന്ദി